ഈ ഹെർട്സ് ഡിപോളിനെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ തുടരും ഈ ഹെർട്സ് ഡൈപോളിനെക്കുറിച്ച് ഓർക്കേണ്ട ഒരേയൊരു കാര്യം അത് വളരെ ചെറിയ ഒരു കറന്റ് മൂലകമായിരുന്നു അത് വളരെ ചെറുതായതിനാൽ കറന്റ് ഏകദേശം സ്ഥിരമാണെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം എങ്കിൽ നമ്മൾ ചെയ്ത സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഈ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് A→ വെക്റ്റർ കണക്കാക്കാം ഗ്രീൻസ് ഫംഗ്ഷനുമായുള്ള Green's function അജ്ഞാത വൈദ്യുതധാരയുടെ പരിണാമം എനിക്ക് A→ ലഭിച്ചു A→ ൽ നിന്ന് എനിക്ക് H→ ലഭിച്ചു ഞാൻ H→ കണക്കാക്കി കാർട്ടീഷ്യൻ പോളാർ എന്നീ കോർഡിനേറ്റുകൾ സമർത്ഥമായി ഉപയോഗിച്ചു നിങ്ങൾ rˆ × zˆ പോലെയാണ് ശരിയാണ് അതിനാൽ ഞാൻ ഈ കോർഡിനേറ്റ് സിസ്റ്റങ്ങൾ കൂടിക്കലർത്തി അപ്പോൾ എനിക്ക് ഇവിടെ വളരെ നല്ല ഒരു പദപ്രയോഗം ലഭിച്ചു ദൂരെയുള്ള ഫീൾഡുകൾ 1r ആയി പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു കേൾ എടുത്ത് മാഗ്ന്റ്റിക് ഫീൾഡ് ലഭിച്ചുകഴിഞ്ഞാൽ ഇലക്ടിക് ഫീൾഡ് ലളിതമാണ് ഞാൻ ഇപ്പോൾ ഈ പദപ്രയോഗത്തിന്റെ കേൾ എടുത്തുമാറ്റിയാൽ ഞാൻ ഏത് കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും സ്ഫെറിക്കൽ ശരിയല്ലെ കാരണം അതിനുള്ളിൽ r എല്ലാം ഉണ്ട് അതിനാൽ സ്ഫെറിക്കലാണ് ഏറ്റവും നല്ലത് അത് വളരെ മനോഹരമായ ഒരു ആവിഷ്കാരമായിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതിൽ എല്ലാം ഉണ്ടാകും അതിനാൽ ഞാൻ ആ കേൾ ഓപ്പറേറ്ററെ എഴുതാനോ അത് ഡിറൈവ് ചെയ്യാനോ പോകുന്നില്ല എന്നാൽ ഇതാണ് ഇവിടെ മുഴുവൻ പ്രയോഗം അതിനാൽ ഇത് നമ്മൾ ഇതിനകം കണ്ട കാന്തികക്ഷേത്രമാണ് ആദ്യത്തെ എക്സ്പ്രെഷനും രണ്ടാമത്തേത് ഒരു തരത്തിൽ ലഭിക്കുന്നതുമാണ് ഇതിന്റെ കേൾ എടുക്കുമ്പോൾ എനിക്ക് രണ്ട് ഘടകങ്ങൾ ലഭിക്കും അതിനാൽ ദിശയിൽ ഇത് ഉണ്ടായിരുന്നു എനിക്ക് ഒരു കൂടാതെ ഒരു r ഉണ്ട് അതിനാൽ ഇത് എന്റെ r ദിശ ശരിയാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ മാത്രം ഇത് എന്റെ θ ആണ് ഇത് എന്റെ ϕ ആണ് അതിനാൽ താഴേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെയാണോ ഏത് വഴിയാണ് ബോർഡിലേക്ക് അതിനാൽ ഇത് എന്റെ ഈ കോർഡിനേറ്റ് സിസ്റ്റം ഇങ്ങനെ കാണപ്പെടുന്നു rˆ · zˆ എഴുതിയിരിക്കുന്നു വിദ്യാർത്ഥി ഡോട്ട് ക്ഷമിക്കണം ക്രോസ് rˆ × zˆ എന്ന് എഴുതിയിരിക്കുന്നു വിദ്യാർത്ഥി സൈൻ θ sin θ sin θ സൈൻ θ ശരി ലംബ ദിശ ϕ ആണ് അവയ്ക്കിടയിലുള്ള കോൺ θ ആണ് അങ്ങനെ സൈൻ θ sin θ യൂണിറ്റ് വെക്റ്റർ ചില |r| |z| ഒന്നാണ് ഇലക്ടിക് ഫീൾഡിൻ്റെ പദപ്രയോഗം വളരെ ഭയാനകമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ ഡൈപോളിൻ്റെ നീളം ചെറുതാണ് എന്നതിനപ്പുറം മറ്റൊരു ഏകദേശ കണക്കും ഇവിടെയില്ല അതിനാൽ ഇത് നോക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ലളിതമായ ഒരു പതിപ്പ് എടുക്കാം ഞങ്ങൾ ഫാർ ഫീൾഡുകൾ നോക്കാൻ പോവുകയാണ് ഈ പ്രശ്നത്തിൽ വളരെ നിഷ്കളങ്കമായി ഞാൻ പറയാൻ പോകുന്നത് ഫാർ ഫീൽഡ് ആണ് kr എന്നത് 1 നേക്കാൾ വളരെ വലുതാണ് ഇതിന് കൂടുതൽ പരിഷ്കൃതമായ നിർവചനങ്ങൾ ഉണ്ട് നമ്മൾ അവയിലേക്ക് പിന്നീട് വരാം ഈ ഏകദേശ പ്രകാരം മാഗ്ന്റ്റിക് ഫീൾഡിന് എന്ത് സംഭവിക്കും ഈ ബ്രാക്കറ്റിൽ എനിക്ക് രണ്ട് പദങ്ങളുണ്ട് HIz4jk11jkre jkrrsin EIz4j11jkr1jkr2e jkrrsinIz4j1jkr1jkr2e jkrrcosr kr 1 ശരിയായതിനാൽ ഞാൻ ആദ്യ പദം സൂക്ഷിക്കും അതിനാൽ ആ സാഹചര്യത്തിൽ കാന്തികക്ഷേത്രത്തിന്റെ അളവ് മാറുന്നു HIz4jke jkrrsin ഇലക്ടിക് ഫീൾഡിന് എന്ത് സംഭവിക്കും എത്ര പദങ്ങളുണ്ട് അഞ്ച് പദങ്ങൾ ശരി അതിനാൽ ഏറ്റവും പ്രമുഖമായ പദം അവയിലൊന്ന് മാത്രമായിരിക്കും ഞാൻ നിലനിർത്തുക അതിനാൽ ഇത് മാറുന്നു EIz4je jkrrsin അതിനാൽ ഫാർ ഫീൽഡിൽ ഫീൽഡുകൾ 1r ആംപ്ലിറ്റ്യൂഡിൽ പോകുന്നു എന്ന് നമ്മൾ പറയുന്നത് r ന്റെ ഒരു ഫംഗ്ഷനെങ്കിലും 1r ആണ് അതിനാൽ ഇത് നിങ്ങളുടെ കൊളംബ്സ് ലോയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ഇതിനകം ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരി ഇവിടെ നിന്ന് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കാനാകുമോ കൂടാതെ രസകരമായ ഒരുപാട് ഭൌതികശാസ്ത്രം ഇവിടെ സംഭവിക്കുന്നുണ്ട് ഞാൻ സ്കോർ ചെയ്തത് ഉറവിടത്തിൽ നിന്ന് വളരെ അകലെ നിൽക്കുമ്പോൾ ഫീൽഡുകൾ എങ്ങനെയിരിക്കും അതിനാൽ പോയിൻറിംഗ് വെക്റ്റർ ഏത് വഴിയായിരിക്കും അതിനാൽ പോയിന്റിംഗ് വെക്റ്റർ S12 EH അപ്പോൾ എന്റെ പോയിൻറിംഗ് വെക്റ്റർ ഏത് വഴിയാണ് എന്റെ പോയിൻറിംഗ് വെക്റ്റർ rനോടും എന്റെ ഇലക്ടിക് ഫീൾഡ് യോടും എന്റെ മാഗ്നെറ്റിക് ഫീൾഡ് നോടും ചേർന്നാണ് നിൽക്കുന്നത് ഇത് ഏത് തരത്തിലുള്ള കോൺഫിഗറേഷനാണ് അത് നിങ്ങളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത് വിദ്യാർത്ഥി TEM TEM ഒരു ട്രാൻസ്വേർസ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവാണ് എന്തെന്നാൽ ഇലക്ടിക് ഫീൾഡും മാഗ്നെറ്റിക് ഫീൾഡും പരസ്പരം ലംബമാണ് അവ പവർ ട്രാൻസ്ഫറിന്റെ ദിശയിലേക്കും ലംബമാണ് പ്ലയിൻ വേവിലും അങ്ങനെ തന്നെയല്ലേ വിദ്യാർത്ഥി അതെ അതെ ശരിയാണ് അതിനാൽ ഇത് നിങ്ങളുടെ TEM വേവാണ് പ്രചരണത്തിന്റെ ദിശയിൽ ഇലക്ടിക് അല്ലെങ്കിൽ മാഗ്നെറ്റിക് ഫീൾഡിൻ്റെ ഘടകമില്ല അതിനാൽ നമ്മൾ പഠിച്ച ഏറ്റവും ലളിതമായ വേവാണിത് വാസ്തവത്തിൽ ഇത് നിങ്ങൾ പഠിച്ച 1D പ്ലെയിൻ വേവുകൾക്ക് സമാനമാണ് ഒരേയൊരു വ്യത്യാസം ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ 1r ആണ് അതിനാൽ നമ്മൾ ഇതിനെ 3D പ്ലെയിൻ വേവെന്ന് വിളിക്കുന്നു അതിനാൽ ഈ പോയിൻറിംഗ് വെക്ടറിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് rദിശയിലായിരിക്കുമെന്ന് നിങ്ങൾ ഇതിനകം ശ്രദ്ധിച്ചു അതിന്റെ മാഗ്നിറ്റൂഡ് എന്തായിരിക്കും അതിനാൽ ഇത് ആയിരിക്കും S12Iz42k sin2r2r ഇപ്പോൾ എനിക്ക് 1r2 ആയി പോകുന്ന ഒരു പവർ ലഭിച്ചു അതിനാൽ ഇത് ഹെർട്സ് ഡൈപോളിന് വേണ്ടി ഡിറൈവ് ചെയ്തതാണ് എന്നാൽ ആന്റിനയിൽ നിന്ന് വളരെ അകലെയുള്ള ഏത് ആന്റിന ഘടനയ്ക്കും ഇത് ശരിയാണ് മൊബൈൽ ബേസ് സ്റ്റേഷനിൽ നിങ്ങൾ ബേസ് സ്റ്റേഷൻ എടുത്താലും നിങ്ങൾ വളരെ ദൂരെ പോയാലും അതിൽ നിന്ന് വരുന്ന ഫീൽഡുകൾ ഈ രൂപത്തിലുള്ളതാണെന്ന് കണ്ടെത്തും ഇതിൽ നിന്ന് പുറത്തുപോകുന്ന മൊത്തം പവർ എത്രയാണെന്ന് കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ എന്തുചെയ്യും എനിക്ക് മൊത്തം പവർ വേണമെന്ന് കരുതിയാൽ ഈ പോയിൻറിംഗ് വെക്ടറിനെ ഞാൻ എന്തിന് സമന്വയിപ്പിക്കും കുറച്ച് r റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ds ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാൽ നിങ്ങൾക്ക് ഈ കണക്കുകൂട്ടൽ നടത്താം അല്ലെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കണക്കുകൂട്ടലല്ല ഒരു സ്ഫിയറിൻ്റെ ഉപരിതല ഘടകം കണ്ടെത്തി ഇത് സമന്വയിപ്പിക്കുക ഇവിടെ നിങ്ങളുടെ ds എന്താണ് ഞാൻ കുറച്ചുകൂടി പൊതുവായി ഉദ്ദേശിക്കുന്നു ds വിദ്യാർത്ഥി r dr അതിനാൽ നിങ്ങൾ ഇത് കൊൺസ്റ്റൻ്റായി സംയോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് 4πr2 ലഭിക്കും അത് ഒരു ഉപരിതല വിസ്തീർണ്ണമാണ് അതിനാൽ ഞാൻ ഇത് ഉപരിതലത്തിൽ സമന്വയിപ്പിക്കുമ്പോൾ r2 പദത്തിന് എന്ത് സംഭവിക്കും വിദ്യാർത്ഥി റദ്ദാക്കുന്നു റദ്ദാക്കുന്നു അതിനാൽ ഈ സംയോജനം ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് പക്ഷേ ഇത് വളരെ രസകരമല്ല ഉത്തരം r ൽ നിന്ന് സ്വതന്ത്രമാണ് അപ്പോൾ അത് നിങ്ങളോട് എന്താണ് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതും മിക്സഡ് ഫിസിക്കൽ സെൻസ് ആണെന്നാണ് ഞാൻ എവിടെ നിന്ന് സംയോജിപ്പിച്ചാലും ഈ സ്ഫിയരിൽ നിന്ന് പുറത്തുപോകുന്ന പവർ മാറാൻ പാടില്ല അതിനാൽ ഇത് നമ്മുടെ അവബോധത്തെ സ്ഥിരീകരിക്കുക മാത്രമാണ് കാരണം ഒരു ഗോളം മുഴുവൻ 4π യും ഉൾക്കൊള്ളുന്നു അതിനാൽ ഡൈപോളിനെ വലയം ചെയ്യുന്നതിനാൽ ഞാൻ പവർ കണക്കാക്കുന്നു ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ സംയോജിപ്പിച്ചാലും ഉപരിതലത്തിൽ നിന്ന് പുറത്തുപോകുന്ന പവർ സമാനമായിരിക്കും S പിടിച്ചെടുക്കുന്ന ഈ വേവിൻ്റെ പവർ ഡെൻസിറ്റി വ്യത്യസ്തമായിരിക്കും ചെറിയ r ൽ നിങ്ങൾ അടുത്തെത്തുമ്പോൾ അത് 1r2 ആയതിനാൽ പവർ ഡെൻസിറ്റി വർദ്ധിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെയുള്ള ഈ S എക്സ്പ്രഷനൽ തികച്ചും യഥാർത്ഥമാണ് അവയെല്ലാം j ആയതിനാൽ ഇവിടെ എന്തെങ്കിലും ഇമാജിനറിയാകാൻ നല്ല അവസരമുണ്ടെങ്കിലും ഫീൽഡ് എക്സ്പ്രഷനിൽ ഇത് തികച്ചും യാഥാർത്ഥ്യമാണ് അതിനാൽ ഏത് സർക്യൂട്ട് എലമെൻ്റിലാണ് പൂർണ്ണമായും യഥാർത്ഥ പവർ വിഘടിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥി റെസിസ്റ്റർ അതിനാൽ ഇത് അതിന്റെ പവറിന് തുല്യമായ ഒരു സർക്യൂട്ട് പോലെയാണ് അത് ഒരു റെസിസ്റ്ററിലൂടെ കടന്നുപോകുന്നു അത് പോയിക്കഴിഞ്ഞാൽ അത് പോകും വീണ്ടെടുക്കേണ്ട ആവശ്യമില്ല അതിനാൽ ഇവയെ റേഡിയേഷൻ ഫീൽഡ്സ് എന്നും ഇതിനെ റേഡിയേറ്റ്ഡ് പവർ എന്നും വിളിക്കുന്നു ഇല്ല ഇവ ഇവിടെ വളരെ ലളിതമായ ആശയക്കുഴപ്പങ്ങളാണെന്ന് ഞാൻ കരുതുന്നു ഇതാണ് പവർ പോയിന്റിംഗ് വെക്റ്റർ ഇതാണ് പവർ ഡെൻസിറ്റി അതിനാൽ ഇത് മൊത്തം പവറാണ് ഞാൻ അതിനെ ടോട്ടൽ പവർ എന്ന് വിളിക്കുന്നു ഞാൻ വളരെ വളരെ ദൂരെ പോയാൽ ഒരു സ്ഫിയറിന് മേൽ സംയോജിപ്പിച്ച പവർ ഇപ്പോഴും അവിടെയുണ്ട് ഇത് 1r2 ആയി പോകുന്നു അത് വളരെ ചെറുതാണെങ്കിലും നിങ്ങൾക്ക് ആ വഴിക്ക് പോകണമെങ്കിൽ ഞാനും ഒരു വലിയ മേഖലയിൽ സമന്വയിപ്പിക്കുകയാണ് അതിനാൽ അത് അവിടെ ഉണ്ടാകും അതിനാൽ ഇത് ഇവിടെ എന്റെ ആന്റിനയാണെങ്കിൽ ഇവിടെ കുറച്ച് പവറുണ്ട് ഞാൻ ഇവിടെ കൂടുതൽ മുന്നോട്ട് പോയാൽ ഇതാണ് പവർ ഞാൻ അർത്ഥമാക്കുന്നത് പോയിന്റിംഗ് വെക്റ്റർ 1r2 ആയി പോകുന്നു എന്നാണ് അതിനാൽ അത് താഴേക്ക് പോകുന്നു അതിനാൽ ഇത് ഇവിടെ കുറവാണ് ഇവിടെയും കുറവാണ് പവർ താഴേക്ക് പോകുന്നു അത് കുഴപ്പമില്ല എന്നാൽ ഇപ്പോൾ ഞാൻ ഈ മുഴുവൻ കാര്യങ്ങളും ഇവിടെ സംയോജിപ്പിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അതേ നമ്പർ എനിക്ക് ലഭിക്കും നിങ്ങൾ ഈ ഉറവിടത്തിൽ നിന്ന് വളരെ അകലെ പോകുമ്പോൾ ഫീൽഡ് ഇൻ്റൻസ്റ്റി കുറയുന്നു അതിനാൽ ഇത് നിങ്ങളുടെ നിയർ ഫീൾഡ് പരിഗണനയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതും ഫാർ ഫീൾഡാണ് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം നിയർ ഫീൽഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് അതിനാൽ നിയർ ഫീൽഡ് എന്ന് നമുക്ക് പറയാൻ കഴിയും kr എന്നത് 1 നേക്കാൾ വളരെ കുറവാണ് അതിനാൽ ഞാൻ ആന്റിനയോട് വളരെ അടുത്തുള്ള മേഖലകൾ നോക്കുകയാണ് അപ്പോൾ ഈ പദപ്രയോഗങ്ങൾക്ക് എന്ത് സംഭവിക്കും ഒരു ഉദാഹരണത്തിന് H→ ഏത് പദം ഞാൻ സൂക്ഷിക്കും വിദ്യാർത്ഥി രണ്ടാം പദം രണ്ടാമത്തെ പദം ശരിയാണ് 1kr ഇപ്പോൾ 1 നേക്കാൾ വളരെ വലുതാണ് അതിനാൽ എനിക്ക് ലഭിക്കും HIz4 e jkrr2 sin അതിനാൽ മാഗ്നെറ്റിക് ഫീൾഡ് എന്തായാലും ഒരേ ദിശയിലാണ് ഇലക്ടിക് ഫീൾഡ് ഇലക്ടിക് ഫീൾഡിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഏത് പദം നിലനിർത്തണം 1jkr മാത്രം അതിനാൽ എനിക്ക് ലഭിക്കും EIΔz4j1jkr2sine jkrrIΔz2j1jkr2cosre jkrr അതിനാൽ ഫാർ ഫീൽഡ് കേസിൽ നിന്ന് വ്യത്യസ്തമായി മാഗ്നെറ്റിക് ഫീൾഡുകൾ 1r2 ആയി പോകുന്നു ഇലക്ടിക് ഫീൾഡുകൾ 1r3 ആയി പോകുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് എന്താണ് 1r3 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിദ്യാർത്ഥി ഡൈപോൾ ഡൈപോൾ കാരണമായ ഇലക്ടിക് ഫീൾഡ് അതിനാൽ ഇത് ഒരു ഡൈപോളായി തോന്നുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഞാൻ നിയർ ഫീൽഡിൽ പോയിൻറിംഗ് വെക്റ്റർ കണക്കാക്കുകയാണെങ്കിൽ അതേ കാര്യം ഞാൻ ചെയ്യും Snf12EH നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് പദങ്ങൾക്ക് ശരി എന്നാൽ ഇവിടെയുള്ള പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എനിക്ക് 1r5 ലഭിക്കണം ഞാൻ ഏതൊക്കെ ദിശകൾ പ്രതീക്ഷിക്കണം അത് എനിക്ക് ഒരു r തരാൻ പോകുന്നു അതിനാൽ എനിക്ക് ലഭിക്കാൻ പോകുന്നത് Snf1r5sin2 r sin2jsomething അത്ര പ്രധാനമല്ലാത്ത ഒരു കൂട്ടം സ്ഥിരാങ്കങ്ങളും ശരി ഈ സ്ഥിരാങ്കങ്ങളുടെ പ്രധാന കാര്യം ഞാൻ ഇവിടെ എഴുതട്ടെ അത് ഇതാണ് jsomething നിങ്ങൾക്ക് അത് കാണാൻ കഴിയും കാരണം E→× H→ E→ യുടെ രണ്ട് പദങ്ങൾക്കും ഒരു j ഉണ്ട് H ന് j ഇല്ല അതിനാൽ ഒരു j യുടെ പദം അവിടെ തുടരും അതിനാൽ പ്രധാന സവിശേഷത 1r5 ആണ് പിന്നെ ഇത് തികച്ചും ഇമാജിനറിയാണ് ശരി ഇത് നിങ്ങളുടെ മുമ്പത്തെ കേസിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവയെ നിങ്ങളുടെ റിയാക്ടീവ് ഫീൽഡുകൾ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ ഇവിടെ ചില മേഖലകളിൽ സംയോജിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കേണ്ടത് അത് r ഡിപെൻഡ്ന്റ്റ് ആണോ അല്ലയോ അത് 0 ആയിരിക്കണം എന്തുകൊണ്ട് ഇത് 0 ആയിരിക്കണം അത് 0 ആകില്ല അതിനാൽ ഒരു ഉത്തരം അത് അവിഭാജ്യമായിരിക്കും r ഡിപെൻഡ്ൻ്റായിരിക്കും എന്നാൽ അത് r ഡിപെൻഡ്ൻ്റാവരുത് എന്താണ് ക്യാച്ച് ഇല്ല ഞാൻ ഉറവിടത്തെ സംയോജിപ്പിക്കുന്നില്ല ഉറവിടം അവിടെയുണ്ട് സംയോജിപ്പിക്കുന്നതിൽ നിന്ന് കുറച്ച് അകലെയാണ് വിദ്യാർത്ഥി ഞങ്ങൾക്ക് ഇത് ഉണ്ട് അതിനാൽ യഥാർത്ഥത്തിൽ കാര്യം എന്തെന്നാൽ ഈ ഇലക്ടിക് മാഗ്നെറ്റിക് ഫീൾഡുകൾ എഴുതിയപ്പോൾ kr എന്ന ഏകദേശ കണക്ക് 1 നേക്കാൾ വളരെ കുറവാണ് ഇപ്പോൾ എനിക്ക് സ്ഫിയറിൽ നിന്ന് പുറത്തുപോകുന്ന മൊത്തം പവർ കണ്ടെത്തണമെങ്കിൽ എല്ലാ പദങ്ങളും ഉൾപ്പെടുത്തണം അങ്ങനെ ചെയ്താൽ r ൽ നിന്ന് പവർ ഇൻഡിപെൻഡ്ൻ്റ് ആണെന്നും പവർ പുറത്തുപോകുന്നത് മാറാൻ പാടില്ലെന്നും ഞാൻ കണ്ടെത്തും എന്നാൽ ഇവിടെ ഞാൻ ഈ 5 പദങ്ങളിൽ നിന്ന് 2 പദങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ അതിനാൽ ഇവിടെ ചില തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടാകും അത് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഈ പദം മുഴുവൻ മേഖലയിലും സമന്വയിപ്പിക്കാൻ പോകുന്നില്ല പോയിൻറിംഗ് വെക്ടറിന്റെ പ്രബലമായ ഭാഗം എന്താണെന്നും നിയർ ഫീൽഡിൽ പോയിൻറിംഗ് വെക്ടറിന്റെ പ്രധാന സംഭാവന എന്താണെന്നും ഇത് നമ്മോട് പറയുന്നു അപ്പോൾ അത് തികച്ചും ഇമാജിനറിയും റിയാക്റ്റീവുമാണ് എന്നതാണ് വസ്തുത ഇത് ഏത് സർക്യൂട്ട് എലെമെൻ്റിനെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇൻഡക്റ്റർ ആണോ കപ്പാസിറ്റർ ആണോ വിദ്യാർത്ഥി ഇൻഡക്റ്റർ അതിനാൽ ഏതൊരു ആന്റിനയുടെയും നിയർ ഫീൽഡിൽ സംഭവിക്കുന്നത് LC സർക്യൂട്ടിലെന്നപോലെ ഊർജ്ജം ഇലക്ടിക് ഫീൾഡിനും മാഗ്നെറ്റിക് ഫീൾഡിനും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു ഊർജ്ജം ഒരു ഇൻഡക്ടറിൽ നിന്ന് കപ്പാസിറ്ററിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നു അതിനാൽ ഇത് ഞാൻ അർത്ഥമാക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ വയർലെസ് പവർ ട്രാൻസ്ഫർ ആപ്ലിക്കേഷനുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിയർ ഫീൽഡിൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അവ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു കാരണം നിങ്ങൾ ഫാർ ഫീൽഡിൽ വരുമ്പോഴേക്കും ഈ ഊർജ്ജം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും അത് പൂർണ്ണമായും യാഥാർത്ഥ്യമാകും ഇത് ഒരു റെസിസ്റ്റർ ഡ്രോപ്പ് മാത്രമാണ് എന്നാൽ ഇവിടെ ഈ ഊർജ്ജം ഉപയോഗപ്പെടുത്താം ഉദാഹരണത്തിന് ടൂത്ത് ബ്രഷ് ചാർജറുകൾ നിങ്ങൾക്കറിയാം നിങ്ങൾ അത് അവിടെ ഡോക്ക് ചെയ്യും നമുക്ക് കൂടുതൽ പവർ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന നിയർ ഫീൽഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണിത് ഒന്നു കൂടിയുണ്ട് നെഗറ്റീവ് അടയാളങ്ങൾ ഉണ്ടാകാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള കോൺസ്റ്റൻ്റുകളുടെ ഒരു കൂട്ടമാണ് E H ഫീൽഡുകൾക്കിടയിൽ റിയാക്ടീവ് ഫീൽഡുകളും ഊർജ്ജവും കൈമാറ്റം ചെയ്യപ്പെടുന്നു മൊത്തം പവറാണ് നമ്മൾ സംരക്ഷിക്കുന്നത് നിങ്ങൾ സംയോജിപ്പിക്കാൻ തിരഞ്ഞെടുത്തത് പരിഗണിക്കാതെ തന്നെ യഥാർത്ഥ പോയിൻറിംഗ് വെക്റ്റർ സംരക്ഷിക്കപ്പെടും അതിനാൽ ആന്റിന സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ഒരു കോഴ്സിൽ ഇത് ഉരുത്തിരിഞ്ഞ് എല്ലാ സവിശേഷതകളും മനസിലാക്കാൻ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കും അതിന്റെ CEM കമ്പ്യൂട്ടേഷണൽ ഇലക്ട്രോ മാഗ്നറ്റിക്സ് ഭാഗത്തേക്ക് അടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് കുറച്ച് ആമുഖം നൽകിക്കൊണ്ട് മാത്രമാണ്